മാനേജിങ് ഐ പി അറ്റ് യൂണിവേഴ്സിറ്റീസ് സർവകലാശാലകൾ എങ്ങനെയാണ് ഐ പി കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം ഐ പി അഥവാ ബൌദ്ധിക സ്വത്തവകാശം എന്താണെന്ന് നമ്മൾ ആദ്യം മനസിലാക്കണം ലളിതമായി പറഞ്ഞാൽ ബൌദ്ധിക പ്രക്രിയയുടെ ഫലമായുണ്ടായ ഒരു തനത് സൃഷ്ടിയാണ് അത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തെ സർഗ്ഗാത്മകതയുടെ ലാൻഡ്സ്കേപ്പിൽ കൃത്രിമബുദ്ധിയും യന്ത്രപഠനവും തങ്ങളുടെ പങ്കുവഹിക്കുന്നത് എങ്ങനെ എന്ന് കാണാൻ കഴിയും മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ കർശനമായും ബൌദ്ധിക പ്രക്രിയയായി കണക്കാക്കപ്പെടുന്നത് കൃത്രിമബുദ്ധി മെഷീൻ ലേണിംഗ് മുതലായവയിൽ നിന്ന് പുറത്തുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പേറ്റന്റ് നൽകാനോ പരിരക്ഷിക്കാനോ കഴിയുമോ എന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ട് നിലവിൽ മനുഷ്യന്റെ സൃഷ്ടിപരമായ അദ്ധ്വാനത്തിൽ നിന്ന് പുറത്തുവരുന്ന ഉൽപ്പന്നങ്ങളിൽ മാത്രമായി ബൌദ്ധികപ്രക്രിയയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു വ്യത്യസ്തത തരത്തിലുള്ള ഐ പി യെ കുറിച്ച് നമ്മൾ ഇതിന് മുൻപുള്ള പാഠങ്ങളിൽ പഠിച്ചിരുന്നു ഒരു സർവകലാശാലയിൽ നിന്ന് പേറ്റന്റ് പുറത്തുവരാം ഒരു സർവകലാശാലാപദ്ധതിയിൽ നിന്ന് ട്രേഡ്മാർക് നേടാനാകും സർവകലാശാലകളിൽ നിർമിക്കപ്പെടുന്ന പകർപ്പവകാശമുള്ള വസ്തുക്കളെ പകർപ്പവകാശത്തിലൂടെ പരിരക്ഷിക്കാം ഡിസൈനുകളെ ഡിസൈൻ രെജിസ്ട്രേഷനിലൂടെയും പരിരക്ഷിക്കാം അർദ്ധചാലക ചിപ്പുകളുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ടോപ്പോഗ്രാഫി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ലേഔട്ടിനുള്ള ഒരു രജിസ്ട്രേഷനായിരിക്കും കാർഷിക സർവ്വകലാശാലകൾക്ക് പ്രത്യേകമായി സസ്യ ഇനങ്ങൾ രജിസ്റ്റർ ചെയ്യാം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് സാധാരണയായി ഒരു സമൂഹത്തിന് പൊതുവായുള്ള ഒരു അവകാശത്തെ പരാമർശിക്കുന്നു എന്നാൽ ചില ജി ഐ എസ് രജിസ്റ്ററും ട്രേഡ് സീക്രട്ട് കോഡും ലഭിക്കുന്നതിന് സർവകലാശാലകൾ മുൻകൈയെടുത്ത സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് ഉന്നതവിദ്യാഭ്യാസത്തിന്റെ ഒരു അക്കാദമിക് സ്ഥാപനത്തിലെ ഐ പി എം സെൽ ഇത്തരത്തിൽ രൂപീകരിക്കാം അപ്പോൾ എങ്ങെനയാണ് ഒരു ഐ പി എം സെൽ സജ്ജീകരിക്കുന്നത് ഇത് എങ്ങനെ ചെയ്യാമെന്നതിന്റെ ഒരു സാധാരണ ഉദാഹരണമാണിത് ഐ പി എം സെൽ എന്നതിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇന്റലക്ച്ചൽ പ്രോപ്പർട്ടി മാനേജ്മന്റ് സെൽ ആണ് ഇതിനെ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസ് എന്നും വിളിക്കാം സ്ഥാപനത്തിന്റെ ഒരു കമ്മിറ്റി സ്വന്ത ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലോ ഒരു ഐ പി എം സെൽ സജ്ജീകരിക്കുന്നു എന്നതാണ് പക്ഷെ ഐ പി എം സെൽ സർവ്വകലാശാലയിലെ ഒരു ഡിപ്പാർട്ട്മെന്റിനെപ്പോലെ സ്വന്തമായി ഉണ്ടാകുന്നതല്ല അതിന് ബോധപൂർവ്വമായ ശ്രമം ആവശ്യമാണ് ഇത് സ്ഥാപനത്തലവനോ ഒരു കമ്മിറ്റിയോ ആണ് രൂപീകരിക്കുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആന്തരികമായി നയിക്കപ്പെടുന്നതിനാൽ സ്വയം തീരുമാനിക്കുന്നു അത് ഗവണ്മെന്റ് ഉത്തരവിൻ പ്രകാരവും ആകാം സർക്കാർ ഫണ്ട് ചെയ്യുന്നതിനാൽ പൊതു ധനസഹായമുള്ള സർവ്വകലാശാലകളിൽ ഒരു ഐ പി എം സെൽ ഉണ്ടെന്നു സർക്കാരിന് ഉറപ്പുവരുത്താം അതിനാൽ ഒരു ഐ പി എം സെല്ലിന്റെ ഉത്ഭവം ഒന്നുകിൽ ആന്തരികപ്രേരണയാലാകാം അല്ലെങ്കിൽ അത് ബാഹ്യസമ്മർദത്തിന്റെ ഫലമായിട്ടുമാകാം ഈ സ്ഥാപനത്തിലെ ഒരു മുതിർന്ന പ്രൊഫസർ ഉൾപ്പെടുന്ന ഒരു സജ്ജീകരണമാണിത് അദ്ദേഹത്തെ ഐ പി എം സെല്ലിന്റെ തലവനായി കണക്കാക്കുന്നു ആ വ്യക്തിക്ക് ബൌദ്ധിക സ്വത്തവകാശത്തിൽ അനുഭവപരിചയമുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാറില്ല ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്ന 2 മുതൽ 8 വരെ വ്യക്തികളാകാം അവർ ഐ പി എം സെൽ എന്തുതരം ജോലികളിലും പ്രവർത്തനങ്ങളിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസിലാക്കാം അതിൽ 2 മുതൽ 8 വരെയൊ അതിലധികം പേരോ ഉള്ള ഒരു സജീകരണമാകാം ഒരു ഐ പി എം സെല്ലിനുവേണ്ടി ഒരു ഐ പി ർ പോളിസി തയാറാക്കപ്പെടുന്നു ഒരു സെല്ലും അതിനു വേണ്ടുന്ന വ്യക്തികളെയും തയാറാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമല്ല ആ പോളിസി എങ്ങെനെ ഐ പി എം സെൽ പ്രവർത്തിക്കണം അത് ചെയ്യണ്ടത് എങ്ങെനയാണ് എന്നൊക്കെ അനുശാസിക്കുന്നു ഇന്ത്യൻ അല്ലെങ്കിൽ വിദേശ സ്ഥാപനങ്ങളെ മാതൃകയാക്കിയാണ് ഐ പി ആർ പോളിസി ഇന്ന് പ്രധാനമായും വികസിപ്പിക്കുന്നത് ഐ പി എം സെല്ലിനെ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസ് ടി ടി ഒ ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ ഓഫീസ് ടെക്നോളജി ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നോ ഒക്കെ വിളിക്കാവുന്നതാണ് ഇതിനു വ്യത്യസ്ത പേരുകൾ ഉണ്ടാകാം ഇതിനെ പേറ്റന്റ് സെൽ എന്ന് വിളിക്കാം ഇന്റലക്ച്ചൽ പ്രോപ്പർട്ടി സെൽ അഥവാ ഐ പി ആർ സെൽ എന്ന് വിളിക്കാം അതായത് അതിന് വ്യത്യസ്ത പേരുകൾ ഉണ്ടെങ്കിലും അതിന്റെ ലക്ഷ്യം സർവകലാശാലയിൽ നിന്ന് പുറത്തുവരുന്ന ബൌദ്ധിക സ്വത്തവകാശത്തെ പരിരക്ഷിക്കുക വികസിപ്പിക്കുക തിരിച്ചറിയുക വാണിജ്യവത്കരിക്കുക എന്നിവയാണ് ഇനി നമുക്ക് ഒരു ഐപിഎം സെല്ലിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം ബൌദ്ധിക സ്വത്തവകാശങ്ങൾ സംബന്ധിച്ചും ബൌദ്ധിക സ്വത്തവകാശങ്ങൾ നേടുന്നതിനുള്ള നിയമവശങ്ങളെയും നടപടിക്രമങ്ങളെക്കുറിച്ചും സ്റ്റാഫിനെയും വിദ്യാർത്ഥികളെയും ബോധവത്കരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഐ പി എം സെൽ നടത്തുന്നു അതായത് ബോധവത്കരണം ഐ പി എം സെല്ലിന്റെ ഒരു ധർമ്മമാണ് ഐ പി ഉത്പാദനത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രേരകപ്രവർത്തികൾ ഐ പി എം സെല്ലിലൂടെയാണ് സംഭവിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കായി വ്യക്തികളെ നിയമിക്കുക അഭിഭാഷകർ അറ്റോർണികൾ സെർച്ച് പ്രൊവൈഡർമാർ തുടങ്ങിയ പ്രൊഫഷണലുകളുമായും പ്രൊഫഷണൽ സ്ഥാപനങ്ങളുമായും കരാറിൽ ഏർപ്പെടുക അത്തരം കരാർ വ്യവസ്ഥകളും താരിഫുകളും അനുസരിച്ച് അവരുടെ ഇൻവോയ്സുകളും ബില്ലുകളും അടയ്ക്കുക തുടങ്ങിയവയാണ് ഐ പി എം സെല്ലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ദൌത്യങ്ങൾ ഐ പി എം സെൽ ഇക്കാര്യങ്ങൾ ചെയ്യുന്നതായി കാണാം സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ആളുകളും ബാഹ്യ സേവനദാതാക്കളും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് അത് ചെയ്യാൻ അവയ്ക്ക് കഴിയും പേറ്റന്റ് ഓൺലൈൻ ആയി ഫയൽ ചെയ്യുന്നതിനും ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും പേറ്റന്റ് ഏജന്റ് പോലുള്ള പ്രൊഫഷണലുകളുടെ സഹായം ആവശ്യമാണ് കണ്ടുപിടുത്തം ഇതിനകം തന്നെ പൊതുസഞ്ചയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പുതിയതാണോ എന്ന് തിരയാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രൊഫഷണലുകൾ ആവശ്യമാണ് അതിനാൽ സർവ്വകലാശാലയെ പുറത്തുള്ള പ്രൊഫഷണലുകളുമായി ബന്ധിപ്പിക്കുന്ന സ്ഥാപനമായി ഐ പി എം സെൽ പ്രവർത്തിക്കുന്നു ഐ പി എം സെൽ പ്രവർത്തിപ്പിക്കുന്നതിൻറെ ഭരണപരവും സാമ്പത്തികവുമായ വശങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും പ്രസക്തി അനുസരിച്ച് ബൌദ്ധിക സ്വത്തവകാശം ഫയലിൽ സ്വീകരിക്കുന്നതും നിരസിക്കുന്നതും സാധുകരിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഐ പി എം സെല്ലിന്റെ മറ്റൊരു ധർമമാണ് വ്യവസായമേഖലയ്ക്കും സ്ഥാപനത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരന്റെ ധർമ്മവും ഐ പി എം സെൽ നിറവേറ്റുന്നു വ്യവസായമേഖലയ്ക്കും സ്ഥാപനത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരന്റെ ധർമ്മവും ഐ പി എം സെൽ നിറവേറ്റുന്നു ചില സാഹചര്യങ്ങളിൽ സർവ്വകലാശാല ചെയ്യുന്നത് വ്യവസായ മേഖല തിരയുന്നതുമായി പൂർണ്ണമായും സമന്വയിക്കണമെന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ അപൂർണതകൾ നീക്കം ചെയ്ത് മിനുസ്സപ്പെടുത്തേണ്ടിവരും അത്തരത്തിൽ ഇത് പ്രൊഫസറും വ്യവസായ മേഖലയും സ്ഥാപനങ്ങളും തമ്മിലുള്ള പാരസ്പരികതയുടെ ശബ്ദമായി മാറണം ടെക്നോളജി കൈമാറ്റം സുഗമമാക്കുക ഇത് പ്രധാനമായും ഐ പി യുടെ വിൽപ്പനയ്ക്കായി ലൈസൻസ് ചെയ്യുന്നതിലൂടെയോ അസൈൻ ചെയ്യുന്നതിലൂടെയോ ആണ് സംഭവിക്കുന്നത് രജിസ്ട്രേഷൻ ആവശ്യമുള്ള ഐ പി കൾക്ക് നിരന്തരമായ പുതുക്കൽ ആവശ്യമായതിനാൽ രേഖകളുടെ സംരക്ഷണം ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടതാണ് പേറ്റന്റുകൾ 20 വർഷത്തേക്കും ഡിസൈനുകൾ 15 വർഷത്തേക്കും വ്യാപാരമുദ്രകൾ കൃത്യമായ ഇടവേളകളിലും പുതുക്കേണ്ടതായിത്തുണ്ട് ഇതിനായി രേഖകൾ സംരക്ഷിക്കേണ്ടതാവശ്യമാണ് അതിനാൽ വിശകലനത്തിനും റിപ്പോർട്ടിംഗിനുമായി നടത്തിപ്പ് സംബന്ധമായ വിവരങ്ങളും സ്ഥിതി വിവരക്കണക്കുകളും അടങ്ങുന്ന രേഖകൾ സംരക്ഷിക്കുക എന്നത് മറ്റൊരു ധർമ്മമാണ് ഇപ്പോൾ അക്കാദമിക് സ്ഥാപനങ്ങൾ ഒന്നിലധികം തരത്തിലുള്ള ഐ പി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അവ പേറ്റന്റുകൾ പകർപ്പവകാശം ഡിസൈനുകൾ വ്യാപാരമുദ്ര മുതലായവയും സൃഷ്ടിക്കുന്നുവെന്ന് നമുക്കറിയാം അവർ ഫയൽ ചെയ്യുകയും നേടിയെടുക്കുകയും ചെയ്യുന്ന പേറ്റന്റുകളുടെ അളവും ഗുണനിലവാരവും നൂതന പ്രവർത്തനത്തിന്റെ അളവുകോലായി കണക്കാക്കുന്നു ഇത് എപ്രകാരമാണ് ടൈപ്പ് 2 പേറ്റന്റിംഗ് ആകുന്നതെന്ന് സർവകലാശാലകളുടെ റാങ്കിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് പേറ്റന്റ് ജീവിത ചക്രത്തിന്റെ ഒരു സ്നാപ്പ്ഷോട്ട് പേറ്റന്റുകൾ മാനേജ് ചെയ്യുന്ന ഐ പി എം സെല്ലിന്റെ പ്രധാന പ്രവർത്തനമാണിത് പ്രസിദ്ധീകരിച്ച് ഒരു നിശ്ചിത സമയപരിധിക്കുശേഷം പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നു ഫയൽ ചെയ്യുമ്പോൾ ഫയലിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളുടെയും ഫയലിംഗിന് മുമ്പ് സംഭവിച്ച പ്രവർത്തനങ്ങളുടെയും രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പ്രൊഫസറിൽ നിന്നോ ഗവേഷണ സംഘത്തിൽ നിന്നോ തിരയാൻ കഴിയുന്ന പേറ്റന്റ് സംബന്ധിയായ ഒരു വെളിപ്പെടുത്തൽ മൂന്നാം കക്ഷിയുമായി ഏകോപിപ്പിക്കുക പേറ്റന്റ് ഡ്രാഫ്റ്റുചെയ്യുന്ന വ്യക്തിയും പ്രൊഫസറും തമ്മിൽ ഏകോപിപ്പിക്കുക തുടങ്ങിയ ധാരാളം ജോലികൾ ഫയലിംഗിന് മുമ്പുതന്നെ ഐ പി എം സെൽ ചെയ്യുന്നുണ്ട് ഫയലിംഗിന് ശേഷം അത് നിരീക്ഷിക്കേണ്ടതുണ്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടും എന്നും നോക്കേണ്ടതുണ്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് അതിന്റെ പരീക്ഷാഘട്ടത്തിൽ പേറ്റന്റ് ഓഫീസ് ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന എഫ് ഇ ആർ പ്രസിദ്ധീകരിക്കുന്നു അതിന് 6 മാസം അല്ലെങ്കിൽ പരമാവധി 9 മാസത്തിനുള്ളിൽ മറുപടി നൽകണം എഫ് ഇ ആറിന് മറുപടി നല്കാൻ പ്രൊഫഷണലുകളുടെ സേവനം ഏകോപിപ്പിക്കേണ്ടതുണ്ട് അതിനായി സർവകലാശാല പ്രൊഫസർമാരിൽ നിന്ന് സാങ്കേതിക വിവരങ്ങളും ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ പ്രതികരണം കൃത്യസമയത്ത് സമർപ്പിക്കേണ്ടതുമുണ്ട് ഇത് ചിലപ്പോൾ അംഗീകരിക്കപ്പെടാം ചിലപ്പോൾ നിരസിക്കപ്പെടാം നിരസിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഒരു അപ്പീൽ നൽകണം ഒരുപക്ഷേ അത് പരിപാലനം ചെയ്യാൻ അനുവദിക്കപ്പെട്ടേക്കാം ഉദ്ദേശിക്കുന്ന വരുമാനം അതിലൂടെ ലഭിക്കുന്നില്ലെങ്കിൽ പേറ്റന്റിന്റെ കാലാവധി അവസാനിക്കുംവരെയോ അത് അസാധുവാക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ പരീക്ഷണശാലയിൽ തന്നെ അതിനെ സൂക്ഷിക്കാം അതായത് ഒരു പേറ്റന്റ് മാത്രമേ ഉള്ളുവെങ്കിൽപോലും ഐ പി എം സെൽ 20 വർഷംവരെ അതിനെ പിന്തുടർന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതിനിടയിൽ വ്യത്യസ്ത സമയപരിധികകളും ഉണ്ട് ഇനി ഐ ഐ ടികളിൽ പേറ്റന്റിങ് പ്രക്രിയ എപ്രകാരമാണ് നടക്കുന്നതെന്ന് ഞാൻ ഉൾപ്പെടുന്ന ഐ ഐ ടി മദ്രാസിലെ ഐ പി എം സെല്ലിന്റെ ഉദാഹരണത്തിലൂടെ നോക്കാം ഐ പി എം സെല്ലിന്റെ പ്രധാന ധർമ്മങ്ങൾ നമ്മൾ മനസിലാക്കി ഇനി അതിന്റെ സെറ്റ് അപ്പ് ഇൻഫ്രാസ്ട്രക്ചറും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മാനവ വിഭവശേഷിയും എന്താണെന്ന് പരിശോധിക്കാം അവർ ഐ പിയെ ചുറ്റിപറ്റി ഐപി അവബോധം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ പ്രചാരണപരിപാടികൾ നടത്തുന്നു ഞങ്ങൾ തിരിച്ചറിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഒന്നിതാണ് പ്രഭാഷണ വർക്ക്ഷോപ്പുകളിലൂടെയും ഗവേഷകർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെയുമാണ് ഇത് ചെയ്യുന്നത് ഐ പി എം സെൽ തന്നെ ഇത് ചെയ്തേക്കാം ഇന്ത്യയിലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഉള്ളതുപോലെ ഐപിആർ ചെയർ പ്രൊഫസർ ഉള്ള സ്ഥാപനമാണെങ്കിൽ അക്കാര്യങ്ങൾ ചെയ്യുന്നത് ചെയർ പ്രൊഫസറായിരിക്കും വിദ്യാർത്ഥികളിൽ നിന്നും ഫാക്കൽറ്റി അംഗങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന സൃഷ്ടിപരമായ പ്രവർത്തനം സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ കാണപ്പെടുന്ന ഐ ഡി എഫ് എന്ന ഇൻവെൻഷൻ ഡിസ്ക്ലോഷർ ഫോമിൽ പൂരിപ്പിക്കാൻ ഐ പി എം സെൽ ആവശ്യപെടുന്നു ഫോം പൂരിപ്പിച്ചുകഴിഞ്ഞാൽ ക്ലറിക്കൽ സ്റ്റാഫ് ഫോം സ്വീകരിക്കുന്നു അവർ ആ ഐ ഡി എഫ് ലിസ്റ്റ് ചെയ്യുന്നു ആർക്കൈവൽ വീണ്ടെടുക്കലിനും വിശകലനത്തിനും റിപ്പോർട്ടിംഗിനും സൌകര്യമൊരുക്കുന്ന ഒരു സിസ്റ്റം അവർ ആന്തരികമായി വികസിപ്പിച്ചിട്ടുണ്ട് പുതുമയും കണ്ടത്തലിന്റെ ഘട്ടവും നിർണ്ണയിക്കാനുള്ള പ്രാരംഭഘട്ട പരിശോധന കൃത്യതയോടെ ഐ പി എം സെല്ലിൽ നടത്താൻ കണ്ടുപിടുത്തക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ പി എം സെൽ സൌജന്യവും തുക അടയ് ക്കേണ്ടതുമായ ഡേറ്റാബേസുകളെ അതിനായി ആശ്രയിക്കുന്നു ഗൂഗിൾ സ്കോളർ ഗൂഗിൾ പേറ്റന്റ് മുതലായവ സൌജന്യമാണ് ഡാറ്റാ ബേസുകളായ ക്വസ്റ്റൽ ഓർബിറ്റ് തോംസൺ ഇന്നോവേഷൻ ഐ ഈ ഈ ഈ ഇന്നോവേഷൻ ക്യു പ്ലസ് തുടങ്ങിയവ പണമടച്ച് ഉപയോഗിക്കാവുന്നവയാണ് ഈ തിരച്ചിൽ നടത്താനായി സാധാരണയായി ടീമിനുള്ളിൽ പ്രവർത്തിക്കുന്ന അനലിസ്റ്റുകൾക്ക് ട്രെയിനിംഗ് നൽകുന്നു അവർ ഉപജ്ഞാതാക്കളെ പേറ്റന്റബിളിറ്റി നിർണ്ണയിക്കാനും പേറ്റന്റ് നോൺ പേറ്റന്റ് ഡാറ്റാബേസുകൾ patent non patent database തിരയാനും ഉപയോഗിക്കാനും സഹായിക്കുന്നു ഐപിഎം സെൽ തന്നെ അത്തരത്തിൽ മാർക്കറ്റിൽ തിരയൽ നടത്തുന്നവരെ പരിശീലിപ്പിക്കുന്നതും കണ്ടെത്തുന്നതുമാണ് നല്ലത് കാരണം തിരച്ചിലാണ് അവരെ സംബന്ധിച്ച് സാങ്കേതികത ആവശ്യമായിരുക്കുന്ന പ്രവർത്തനം അതായത് ഡ്രാഫ്റ്റിംഗിലും ഫയലിംഗിലും ഐ പി എം സെൽ പങ്കാളിയാകണമെന്നില്ല പക്ഷേ പേറ്റന്റുചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തമുണ്ടോയെന്ന തിരച്ചിൽ സുഗമമാക്കാൻ ഐ പി എം സെല്ലിന് കഴിയും അതിനാൽ ഐപിഎം സെല്ലിന് സ്വതന്ത്ര നൈപുണ്യവും കഴിവും ഉണ്ടെങ്കിൽ സർവ്വകലാശാലയിൽ നിന്ന് വരാവുന്ന എല്ലാ തിരയലുകളെയും ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെക്കാൾ എളുപ്പത്തിലും ചെലവുകുറഞ്ഞ രീതിയിലും അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും അതിനുശേഷം യോഗ്യതയും കഴിവുമുള്ള ഐ പി പ്രൊഫഷണലുമായി പേറ്റന്റിബിലിറ്റി സെർച്ചിന്റെ ഫലം രഹസ്യമായി ചർച്ച ചെയ്യാൻ കണ്ടുപിടുത്തക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ ഡി എഫിനെ ഒരു ഇൻ ഹൌസ് അറ്റോർണിക്ക് റഫർ ചെയ്യുന്നു പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം പേറ്റന്റ് ഫയൽ ചെയ്യണമോ എന്നതിനെക്കുറിച്ചും അത് എങ്ങനെ ഫയൽ ചെയ്യണം എന്നതിനെക്കുറിച്ചും തീരുമാനമെടുക്കുന്നു ചില സാഹചര്യങ്ങളിൽ ഒരു വെളിപ്പെടുത്തൽ വേഗത്തിൽ നടത്തണമെങ്കിൽ താൽക്കാലിക ഫയലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില സാഹചര്യങ്ങളിൽ അത് പൂർണ്ണമായിരിക്കും ഐപിഎം സെല്ലിന് ഒരു ഇൻ ഹൌസ് പേറ്റന്റ് ഏജൻറ് ഉണ്ടെങ്കിൽ താൽക്കാലിക ഫയലിംഗ് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും അതിൽ പുതുമയുടെയും കണ്ടെത്തലിന്റെയും ശക്തമായ സാന്നിധ്യമുണ്ടെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള തീരുമാനം എടുക്കാം അതിനുശേഷം ഐ പി ഫയലിംഗും അത് സംബന്ധിച്ച മുതൽമുടക്കും അംഗീകരിക്കുന്ന ഒരു നിയമസ്ഥാപനത്തിലേക്ക് ഐ ഡി എഫിനെ പരാമർശിക്കുന്നു ആ സ്ഥാപനത്തിൽ ഐ പി സേവനദാതാക്കളുടെ ഒരു പാനലുണ്ട് ആ പാനലിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തെ ഈ ചുമതല ഏല്പിക്കുന്നു പേറ്റന്റ് അന്തിമമാക്കുന്നതിനും ഫയൽ ചെയ്യുന്നതിനും ഐ പി സേവന പ്രൊഫഷണലുകൾ കണ്ടത്തെലുകൾ നടത്തിയവരുമായി സംവദിക്കുന്നു പേറ്റന്റ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സ്ഥിരീകരണം പ്രൊഫഷണൽ സ്റ്റാറ്റ്യൂട്ടറി ഫീസുകൾക്കുള്ള ബില്ലിനൊപ്പം ഐപിഎം സെല്ലിലേക്ക് സമർപ്പിക്കുന്നു അതിന് ചുമതലപെടുത്തിയിരിക്കുന്ന വ്യക്തി ബിൽ ചെയ്യപ്പെട്ട തുക കരാർ നിരക്കുകളുമായി ചേർന്നുപോകുന്നോയെന്ന് ഒത്തുനോക്കുന്നു ബിൽ ചെയ്ത തുകയിൽ നേരത്തെ നടത്തിയ ഓഫിസ് നടപടികളായ മുൻ പേറ്റന്റ് തിരയൽ ഡ്രാഫ്റ്റിംഗ് ഫയലിംഗ് പ്രോസിക്യൂഷൻ തുടങ്ങിയവയുടെ ഫീസ് ഉൾപ്പെടുത്താം എഫ് ഈ ആർ സമർപ്പിക്കുമ്പോൾ ഇത് വ്യത്യാസപ്പെട്ടേക്കാം ഓഡിറ്റിംഗ് മാനേജുമെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ടിംഗ് മുതലായ ആവശ്യങ്ങൾക്കായി റിക്കോഡുകളുടെ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും സൂക്ഷിക്കാറുണ്ട് പേറ്റന്റ് ഫയൽ ചെയ്ത ശേഷം അത് മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതും ഐ പി എം സെല്ലിന്റെ സുപ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതു തന്നെ ക്രമേണ അത് വാണിജ്യവത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിനായി ടെക്നോ കൊമേഴ്സ്യൽ മേഖലയിൽ ഉൾപ്പെടയുള്ളവരുടെ വിദഗ്ദാഭിപ്രായം തേടുന്നു ചില സാഹചര്യങ്ങളിൽ ഇത് ഒരു മൂന്നാം കക്ഷി വിലയിരുത്തുന്നു ഐ പി എം സെല്ലിന്റെ മാർക്കറ്റിംഗ് ടീമും ഓപ്പറേഷൻസ് ടീമുമാണ് ഇത് ഏകോപിപ്പിക്കുന്നത് കണ്ടത്തെൽ നടത്തിയ വ്യക്തിക്ക് വിദേശ രാജ്യത്ത് പേറ്റന്റ് ഫയൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വിദേശ ഫയലിംഗിനായി അപേക്ഷിക്കണം ഒരു അന്തർദ്ദേശീയ പേറ്റന്റ് കമ്മിറ്റി ഇത് പരിശോധിക്കുകയും അതിന് എത്ര ചിലവ് വരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്രതലത്തിൽ അപേക്ഷ സമർപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ അപേക്ഷ ഫയൽ ചെയ്യുകയും വിവിധ അധികാരപരിധികളിൽ ഫയൽ ചെയ്യുന്നതിനായി ഒരു നിയമ സ്ഥാപനത്തിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുന്നു കണ്ടത്തെലുകൾ നടത്തിയവർ സാങ്കേതികവിദ്യയുടെയും കണ്ടുപിടുത്തത്തിന്റെയും ഘട്ടം പ്രോട്ടോടൈപ്പ് പരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യണ്ടത് കാരണം തങ്ങളുടെ പേറ്റന്റ് എപ്രകാരം പേറ്റന്റ് ചെയ്യപ്പെട്ടു എന്നറിയാൻ സ്ഥാപനങ്ങൾക്ക് താത്പര്യമുണ്ട് തങ്ങളുടെ കണ്ടെത്തലുകൾ എപ്രകാരം മാർക്കറ്റ് ചെയ്യണം എന്നതുൾപെടെയുള്ള വിവരങ്ങൾ നിർദിഷ്ട ഫോമുകളിൽ പൂരിപ്പിച്ച് ഫയൽ ചെയ്യണ്ടതുണ്ട് ഐ പി എം സെല്ലിന്റെ മാർക്കറ്റിംഗ് ടീം ആ കണ്ടുപിടുത്തം വിപണിയിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു ഐപിഎം സെൽ കണ്ടുപിടുത്തക്കാരിൽ നിന്നുമുള്ള ഇൻപുട്ടുകൾ അടിസ്ഥാനമാക്കി മൂല്യ നിർദ്ദേശം എന്ന് വിളിക്കുന്ന ഒരു റൈറ്റ് അപ്പ് തയ്യാറാക്കുകയും ആ മൂല്യ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി വിവിധതരത്തിലുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നു കണ്ടുപിടുത്തത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളെക്കുറിച്ചോ സർവ്വകലാശാലയ്ക്ക് ഒരു ടെക്നോളജി ട്രാൻസ്ഫർ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചേർക്കുന്നു കത്തുകൾ എഴുതിയും ഇമെയിലുകൾ അയച്ചും കരാറുകളെകുറിച്ച് സമഗ്രമായി അന്വേഷിച്ചും ഈ കണ്ടെത്തൽ പ്രതിശ്രുത ഉപഭോക്താക്കളിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു കണ്ടത്തെലുകൾക്ക് പേറ്റന്റ് അനുമതി നൽകിയ ശേഷം മെയിന്റനൻസ് ഫീസ് അടയ്ക്കേണ്ടതാണ് മിക്ക പേറ്റന്റ് ഓഫീസുകളിൽ ഉള്ളതുപോലെ ഇന്ത്യയിലും പേറ്റന്റ് റിന്യൂവൽ ഫീ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് വർദ്ധിക്കുന്നു വരുമാനം ഉളവാക്കാത്ത കണ്ടത്തെലുകൾ വ്യക്തികൾ ഉപേക്ഷിക്കുന്നതിന് ഇടയാക്കുന്ന തരത്തിൽ സൂക്ഷ്മമായി ഘടന ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് സർവകലാശാല കണ്ടുപിടുത്തത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ആ സമയത്തിനുള്ളിൽ കണ്ടുപിടുത്തം വിപണനം ചെയ്യപ്പെട്ടില്ലെങ്കിൽ സർവകലാശാലയ്ക്ക് അത് ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗവേഷകനോടോ പ്രോസസ്സറിനോടോ സ്വന്തം ചെലവിൽ കണ്ടുപിടുത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടാം ഇന്ത്യയിൽ ഫോം 27 പോലുള്ള ചില നിയമപരമായ ആവശ്യകതകളും നിവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഒരു പ്രവർത്തന പ്രസ്താവനയാണ് ഐ പി എം സെൽ അത് ശ്രദ്ധിക്കുന്നു ഇത് പതിവായി ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഉത്തരവാദിത്തവും ഐ പി എം സെല്ലിനാണ് ഐ പി എം സെല്ലിന്റെ സ്റാഫിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ അത് അവർക്ക് എത്ര പേരെ ആവശ്യമുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കേണ്ടതാണ് ലെവൽ വൺ സ്റ്റാഫ് പേറ്റന്റ് അറ്റോർണി ആയിട്ടോ എക്സാമിനറായിട്ടോ 5 വർഷത്തെ പ്രവ്യത്തി പരിചയമുള്ള ഒരു വകുപ്പ് മേധാവി ആയിരിക്കും അത് മാർക്കറ്റിംഗ് സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഏഴ് മുതൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മാർക്കറ്റിംഗ് പ്രൊഫഷണലുമാകാം പേറ്റന്റ് ഏജന്റോ അറ്റോർണിയോ കോസ്റ്റ് അക്കൌണ്ടന്റോ ആയി പേറ്റന്റ് തിരച്ചിൽ നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ളവർ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്നവർ കാര്യനിർവ്വഹണത്തിൽ നിപുണരായവർ തുടങ്ങിയവരാണ് ലെവൽ 2 സ്റ്റാഫ് ഫയൽ ചെയ്യപ്പെട്ട നൂറിലധികം പേറ്റന്റുകളിൽ നിന്ന് ഡാറ്റാ കണ്ടെത്തി ആർക്കൈവുകൾ വീണ്ടെടുക്കാനും കാത്തിടപാടുകളും ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് ലെവൽ 3 സ്റ്റാഫ് ഉപകരണങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തെ പേറ്റന്റ് ഡാറ്റാബേസുകളും പേറ്റന്റ് ഇതര ഡാറ്റാബേസുകളും ഉൾകൊള്ളുന്ന മാന്യമായ പ്രയർ ആർട്ട് ഡാറ്റാബേസ് സബ്സ്ക്രിപ്ഷനായിരിക്കും അഭികാമ്യം കേസുകളുടെ ലിസ്റ്റ് ഉൾപ്പെടയുള്ളവ വീണ്ടെടുക്കേണ്ട സമഗ്രമായ ഒരു ആർക്കൈവൽ വീണ്ടെടുക്കൽ പ്രക്രിയ ആയിരിക്കണം ഇത് അതിനാൽ എല്ലാ ഇമെയിലുകളും ഐ പി എം സെൽ വിവിധ പങ്കാളികൾക്കയക്കുന്ന കത്തിടപാടുകളും സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്ന നടപടിക്രമമാണത് ഐ പി എം സെല്ലിന് ആവശ്യമായ പല ഫോമുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടെത്തൽ വെളിപ്പെടുത്തുന്ന ഇൻവെൻഷൻ ഡിസ്ക്ലോഷർ ഫോം അഥവാ ഐ ഡി ഫ് ആണ് കണ്ടെത്തലുകൾ നടത്തിയവർ ഉത്തരം നൽകേണ്ട ഒരുകൂട്ടം ചോദ്യങ്ങൾ ഇതിലുണ്ട് ഇതിലൂടെ അവരുടെ പേരും വിലാസവും ആ കണ്ടത്തലിന്റെ സ്വാഭാവികവും സൃഷ്ടിപരവുമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കണ്ടെത്തൽ നടത്തിയത് ഒന്നിലധികം പേർ ചേർന്നാണെങ്കിൽ ഓരോരുത്തരുടെയും പങ്ക് എന്താണെന്നന്നും അത് ഏതു തരത്തിൽ അത് സർക്കാർ തലത്തിലോ ബാഹ്യ ഫണ്ടിംഗ് ഏജൻസികൾ വഴിയോ ഫണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്നും അത് ബാഹ്യ ഏജൻസികളുടെയോ സ്ഥാപനങ്ങളുടെയോ സഹകരണത്തോടെയാണോ നടത്തപ്പെട്ടത് തുടങ്ങിയവും അറിയേണ്ട കാര്യങ്ങളാണ് ഇൻവെൻഷൻ ഡിക്ലറേഷൻ ഫോം എപ്രകാരമായിരിക്കും എന്നറിയാൻ നിങ്ങൾക്ക് ഐ സി എസ് ആറിന്റെ വെബ് ലിങ്ക് www in ഉപയോഗിക്കാം എൻ ഡി എ അല്ലെങ്കിൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഇത് പോലെ ടെംപ്ലേറ്റായും ഉപയോഗിക്കാം ഇക്കാര്യങ്ങളാണ് ഐ സി എസ് ആർ വെബ്സൈറ്റ് ഉൾക്കൊള്ളുന്നത് അതിൽ ഐ പി ആർ നയമുണ്ട് ഇൻകുബേഷൻ പോളിസി വിശദാംശങ്ങൾ ടെക് ട്രാൻസ്ഫറും റോയൽറ്റിയുമായും ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സോഫ്റ്റ്വെയർ വില്പനയുമായി ബന്ധപ്പെട്ട വിശദീകരണം ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ പേറ്റന്റ് പി സി ടി എന്ന് വിളിക്കുന്ന വിദേശ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമമം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഫോമുകളുമുണ്ട് അവർക്ക് കരാറുകളുടെ ടെംപ്ലേറ്റുകളും ഉണ്ട് ഉദാഹരണത്തിന് ഒരു സംയുക്ത സംരംഭം അല്ലെങ്കിൽ ഒരു സംയുക്ത സഹകരണ ഗവേഷണം സാങ്കേതികവിദ്യയുടെ സംയുക്ത വികസനം വ്യാവസായിക കൺസൾട്ടൻസി അന്തർ സ്ഥാപന കരാർ ടെക്നോളജി ലൈസൻസിംഗ് കരാർ പോലുള്ള വിവിധ കരാറുകൾക്ക് ആവശ്യമായ ടെംപ്ലേറ്റുകൾ ഉണ്ട് അതായത് ഐ പി എം സെല്ലിന് സ്ഥിരമായി ഉപയോഗിക്കുന്ന പതിവ് ഫോമുകളുടെ ടെംപ്ലേറ്റ് ഫോമുകളും ഉണ്ടാകാം അതായത് കേസ് അടിസ്ഥാനത്തിൽ ഇച്ഛാനുസരണം ഉപയോഗിക്കാൻ ഐ പി എം സെൽ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുന്നു